എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചില അടിസ്ഥാന പരമായ ആമുഖത്തിൽൽ നിന്നും തുടങ്ങി ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യാം പ്രായോഗികമായ ഒരു യഥാർത്ഥ റിയൽ ഓപ്പറേറ്റിങ് സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കാം എന്നത് ഈ കോഴ്സിന്റെ ഭാഗമല്ല ഒരു റിയൽ ടൈം ഓപ്പറേറ്റിങ് സിസ്റ്റം ഉപയോഗിക്കുന്നതിന് അടിസ്ഥാന പരമായി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ ഇതെല്ലാമാണ് അതായത് എന്താണ് ഒരു റിയൽ ടൈം സിസ്റ്റം ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ട്രഡീഷണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം ഓപ്പറേറ്റിംഗ് സിസ്റ്റംത്തിന്ടെ സവിശേഷതകലും ഇന്ന് വിപണിയിൽ ലഭ്യമായ വാണിജ്യപരമായ ഓപ്പറേറ്റിങ് സിസ്റ്റം ഏതെല്ലാമാണ് എന്നതാണ് ഈ കോഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ആദ്യ ലെക്ചറിൽ നമ്മൾ തുടങ്ങുന്നത് അടിസ്ഥാനപരമായ കുറച്ചു കാര്യങ്ങളിൽ നിന്നാണ് അതിൽ നിന്നും പിന്നീട് നമ്മൾ അടിസ്ഥാനപരമായ ടാസ്ക് ഷെഡ്യൂൾ ഇങ്ങും ചർച്ച ചെയ്യുന്നതാണ് ഈ കോഴ്സ്മായി മുൻപോട്ടു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് റിയൽ ടൈം ഓപ്പറേറ്റിങ് സിസ്റ്റം നേരിടുന്ന ഏറ്റവും പ്രാധാന്യമേറിയ പ്രശ്നം ടാസ്ക് ഷെഡ്യൂളിംഗ് ആണ് ഇവിടെ പല സാഹചര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ടാസ്ക് ഷെഡ്യൂളറുകൾ നമ്മൾ കാണുന്നുണ്ട് ഉദാഹരണത്തിന് സൈക്ലിക് എക്സിക്യൂട്ടീവ്സ് റേറ്റ് മോണോടോണിക് അൽഗോരിതം അതുപോലെ ഏർലിസ്റ് ഡെഡ്ലൈൻ ഫസ്റ്റ് അൽഗോരിതം മുതലായവ സെമഫോസ് ഉപയോഗിക്കുന്ന സാധാരണ ആപ്ലിക്കേഷനുകളിൽ നിന്നും ഒരു റിയൽ ടൈം അപ്ലിക്കേഷൻ എങ്ങനെ കാര്യക്ഷമമായി റിസോഴ്സുകൾ പങ്കുവെക്കുന്നു എന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സെമഫോസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ചില പ്രശ്നങ്ങൾ നേരിടുന്നു ഈ പ്രശ്നം എന്താണ് എന്നതും എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും നമ്മൾ നോക്കുന്നു അതോടൊപ്പം ഒരു റിയൽ ടൈം ഓപ്പറേറ്റിങ് സിസ്റ്റം ഒരു മൾട്ടിപ്രോസസർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നതും നമ്മൾ നോക്കുന്നു ഇതിനു കാരണം ഇന്നത്തെ സാധാരണ ഡെസ്ക്ടോപ്പ്കളിലും എംബഡഡ് ഉപകരണങ്ങളിലും സർവ്വസാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് മൾട്ടിപ്രോസസർ ഇതിനോടൊപ്പം POSIX റിയൽ ടൈം സ്റ്റാൻഡേർഉം ചില വാണിജ്യപരമായ റിയൽ ടൈം ഓപ്പറേറ്റിങ് സിസ്റ്റവും നമ്മൾ നോക്കുന്നു ഇതിനായി ഞാൻ കുറച്ചുനാൾ മുൻപ് എഴുതിയ ഒരു പുസ്തകം നമുക്ക് ഉപയോഗിക്കാം റിയൽ ടൈം സിസ്റ്റംസ് തിയറി ആൻഡ് പ്രാക്ടീസ് ബൈ പിയർസൺ പ്രസ്സ് ഇതിനോടൊപ്പം ജെയിൻ ലിയു എഴുതിയ റിയൽ ടൈം സിസ്റ്റംസ് പിയർസൺ പിന്നെ കൃഷ്ണ ആൻഡ് ഷിൻ എഴുതിയ റിയൽ ടൈം സിസ്റ്റംസ് McGraw Hill നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ആദ്യ ചോദ്യം എന്താണ് റിയൽ ടൈം വളരെ എളുപ്പമായ വാക്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഫിസിക്കൽ ക്ലോക്ക് ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ പറ്റുന്ന യഥാർത്ഥ സമയമാണ് ഇത് അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉയരുന്ന മറ്റൊരു ചോദ്യം മറ്റു സിസ്റ്റംസ് തരുന്ന സമയവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ സമയം നിയന്ത്രിതമായ യഥാർത്ഥ സാഹചര്യങ്ങളെ പ്രത്യേകമായ ഫിസിക്കൽ ക്ലോക്ക് ഉപയോഗിച്ച് അളക്കുന്നു അതിനോടൊപം ഈ സമയ നിയന്ത്രണങ്ങൾ പാലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ സിസ്റ്റം ഒരു തോൽവിയായി കണക്കാക്കപ്പെടുന്നു ഒരു ഉദാഹരണം എന്ന നിലയിൽ ഒരു കെമിക്കൽ റിയാക്ട്റെ ഒരു റിയൽ ടൈം സിസ്റ്റമായി നമുക്ക് കണക്കിൽ എടുക്കാം ഇതിന്റെ താപനില 500 ഡിഗ്രിയിൽ കൂടുകയാണെങ്കിൽ കൂളൻറ് ഷവർ 100 മില്ലി സെക്കൻഡിനുള്ളിൽ ടേൺ ടൌൺ ചെയ്യേണ്ടതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ക്ലോക്ക് ഉപയോഗിച്ച് താപനില 500 ഡിഗ്രിയിൽ കടക്കുകയാണെങ്കിൽ കൂളൻറ് ഷവർ 100 മില്ലി സെക്കൻഡിൽ താഴുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഇല്ലെങ്കിൽ ഇതിനർത്ഥം ഈ സിസ്റ്റം ഒരു തോൽവി ആണ് എന്നതാണ് പരമ്പരാഗതമായ സിസ്റ്റത്തിലും സമയം എന്ന ഒരു ഘടകമുണ്ട് പരമ്പരാഗതമായ നോൺ റിയൽ ടൈം സിസ്റ്റത്തിൽ സമയത്തിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്യങ്ങൾ മുൻപ് ശേഷം ചിലപ്പോൾ പയ്യെ പയ്യെ എന്നെല്ലാമാണ് ഉദാഹരണത്തിന് ഒരു ലൈബ്രറിയിൽ ഒരാൾ ബുക്ക് ഇഷ്യൂ ചെയ്യുന്നതിനുമുൻപ് ആയിട്ട് ആ ബുക്കിന് ഒരു റെക്കോർഡ് ഉണ്ടാകണം അതായത് ആ ബുക്ക് വാങ്ങുകയും ലൈബ്രറി സിസ്റ്റത്തിൽ അത് നമ്മൾ കയറ്റുകയും വേണം ഇവിടെ നമ്മൾ പറയുന്നത് ഇത്ര മാത്രമാണ് ഒരാൾ ബുക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായി ഈ ബുക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ സിസ്റ്റത്തിൽ കയറ്റേണ്ടതാണ് പക്ഷേ ഇതു നമ്മൾ കയറ്റിയ കൃത്യമായ സമയം നമുക്ക് അറിയുന്നുണ്ടാവില്ല ഇത് ചിലപ്പോൾ മുൻപത്തെ ദിവസം ആകാം മുൻപത്തെ മണിക്കൂർ ആകാം അതുമല്ലെങ്കിൽ കുറച്ചു വർഷങ്ങൾക്കു മുൻപ് ആകാം പരമ്പരാഗതമായ സിസ്റ്റത്തിൽ സമയം എന്ന ഒരു ഘടന ഉണ്ടെങ്കിലും കൃത്യമായ സമയം എന്നൊന്നുമില്ല എല്ലാ റിയൽ ടൈം സിസ്റ്റത്തിലും നമുക്ക് ഒരുപാട് ഇവെന്റ്സ് ഉണ്ടാകും ഇതിന് അനുസരിച്ച് നടക്കേണ്ട സമയനിയന്ത്രിതമായ ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഉണ്ടാകും അതായത് ഈ ഇവെന്റുകൾക്കു സമയ നിയന്ത്രിതമായ റസ്പോൺസ് ഉണ്ടായിരിക്കുന്നതാണ് മിക്കതും എംബഡഡ് സിസ്റ്റംസ് ആണ് അതിനോടൊപ്പം സുരക്ഷാ പ്രാധാന്യമുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഒരു എംബഡഡ് സിസ്റ്റം എന്നുള്ളതും സുരക്ഷാ പ്രാധാന്യമുള്ള സിസ്റ്റം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതുമാണ് എംബഡഡ് സിസ്റ്റംസ് എന്നാൽ പ്രോസസർ കമ്പ്യൂട്ടർ അതിനോടൊപ്പം സോഫ്റ്റ്വെയറും സിസ്റ്റത്തിലെ തന്നെ ഭാഗമാണ് അതാണ് ഈ സിസ്റ്റത്തിന് നിയന്ത്രിക്കുന്നത് ഇവിടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മളൊരു ഫിസിക്കൽ സിസ്റ്റത്തിൽ എംബഡ് ചെയ്തിരിക്കുന്നു എംബഡഡ് സിസ്റ്റത്തിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു റോബോട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടോയ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ അതുമല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇവിടെ എല്ലാം ഫ്യൂൽ ഇൻഡക്ഷൻ നടത്താനും പരിസ്ഥിതി നിയന്ത്രണത്തിന് താപനില എല്ലാം കണക്കിലെടുക്കുന്നു നമുക്കു ചുറ്റും ഒരുപാട് എംബഡ് കമ്പ്യൂട്ടർ നമുക്ക് കാണാൻ സാധിക്കും ഈ എംബഡഡ് സിസ്റ്റത്തിൽ കൂടുതലും റിയൽ ടൈം സിസ്റ്റംസ് ആണ് ഇതിനോടൊപ്പം എംബഡഡ് അല്ലാത്ത റിയൽ ടൈം സിസ്റ്റംസ് നിലകൊള്ളുന്നു ഉദാഹരണത്തിന് എയർപോർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റംസ് ഇത് ഒരു എയർക്രാഫ്റ്റ് വരുമ്പോൾ പ്രതികരിക്കുന്നു അതുപോലെ ഇത് ഒരു എംബഡഡ് സിസ്റ്റം അല്ല നമുക്ക് കൂടുതലും ഉള്ളത് എംബഡഡ് ആയിട്ടുള്ള റിയൽ ടൈം സിസ്റ്റംസ് ആണ് പക്ഷേ ഇതിനർത്ഥം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എല്ലാ എംബഡഡ് സിസ്റ്റംസ് റിയൽ ടൈം ആണ് എന്നത് അല്ല ഇതിൽ കുറെയൊക്കെ തീവ്രമായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സിസ്റ്റംസ് ആണ് കാരണം ഇതിന്റെ തകരാറ് സാമ്പത്തികമായും ശാരീരികമായും ജീവനും വസ്തുവിനും നഷ്ടം ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഇതിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ അത് വലിയ നാശമുണ്ടാകും ജീവനും അതുപോലെതന്നെ വസ്തുവിനു നമ്മുടെ അടുത്ത ചോദ്യം റിയൽ ടൈം സിസ്റ്റത്തിൽ റിയൽ ടൈം ഓപ്പറേറ്റിങ് സിസ്റ്റത്തിന് എന്ത് പങ്കാണ് ഉള്ളത് എന്നതാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പ്രാഥമിക ഉദ്ദേശം എന്നത് ടാസ്കുകൾ സമയനിയന്ത്രിതമായ ഡെഡ്ലൈനുകൾക്കുള്ളിൽ തീർക്കുക എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം റിയൽ ടൈം ഓപ്പറേറ്റിങ് സിസ്റ്റം എങ്ങനെ ടാസ്കുകൾ സമയം നിയന്ത്രിതമായി ഡെഡ്ലൈനിൽ തീർക്കും എന്നതാണ് ഇതിനുത്തരം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ടാസ്ക് ഷെഡ്യൂളർ എന്ന പ്രാഥമിക പ്രവർത്തനമാണ് ഇത് സമയം നിയന്ത്രിതമായി ജോലികൾ തീർക്കാൻ സഹായിക്കുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ടാസ്ക് ഷെഡ്യൂളർ എങ്ങനെയാണ് ടാസ്കുകളെ ഡെഡ്ലൈനിന്റെ ഉള്ളിൽ തീർക്കുന്നത് എന്നതും എന്തൊക്കെ വ്യത്യസ്തമായ ടെക്നിക്കുകൾ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെതന്നെ ഒരു പ്രോഗ്രാമർ പ്രാധാന്യമേറിയ ടാസ്കുകളും അതിന്റെ സവിശേഷതകളും അതുപോലെ തന്നെ സമയം നിയന്ത്രിതമായി അതു തീർക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും രേഖപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷനിലെ വ്യത്യസ്തമായ ഇവൻസ് സമയം നിയന്ത്രിതമായി എങ്ങനെ തീർക്കുന്നു എന്നതുമാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി എംബഡഡ് ആപ്ലിക്കേഷനുകൾ ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു ട്രഡീഷണൽ കംപ്യൂട്ടറുകൾക്ക് പകരമായി ഇന്ന് കൂടുതലും നമ്മൾ എംബഡഡ് ആപ്ലിക്കേഷനുകൾ ആണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് വീട് ആവശ്യങ്ങൾക്കായി നമ്മൾ ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചെന്നും ഉപയോഗിച്ച് ഇല്ലെന്നും വരാം എന്നാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് വീട് ഉപകരണങ്ങൾ എംബഡഡ് സിസ്റ്റം തന്നെയാണ് ഉദാഹരണത്തിന് മൈക്രോവേവ് ഓവൻ ഇലക്ട്രോണിക് ടോയ് ടെലിഫോൺ റിസീവർ ടെലിവിഷൻ കണ്ട്രോള് റിമോട്ട് കൺട്രോളർ മുതലായവ എന്തുകൊണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി റിയൽ ടൈം ആപ്ലിക്കേഷനുകളിൽ ഇത്രയും കൂടുതൽ ഉയർച്ച കാണാൻ സാധിക്കുന്നു ഇതിനു പ്രധാനമായും കമ്പ്യൂട്ടറുകളുടെ വില ഒരുപാട് താഴേക്ക് കുറഞ്ഞിരിക്കുന്നു എന്നതാണ് കാരണം ഇന്ന് പ്രോസസർ മെമ്മറി തുടങ്ങിയവ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് വിപണിയിൽ ലഭ്യമാണ് ഇന്റർനെറ്റ് വരവോടുകൂടി കമ്പ്യൂട്ടറുകൾക്ക് തമ്മിൽ വളരെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അതിനോടൊപ്പം പ്രോസസർ മെമ്മറി മുതലായവയുടെ വൈദ്യുതി ഉപയോഗവും കുറഞ്ഞിരിക്കുന്നു പണ്ട് കമ്പ്യൂട്ടറുകൾ ഒരുപാട് വൈദ്യുതി ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇന്നുള്ള എംബഡഡ്പ് പ്രോസസർ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരു ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നവയാണ് കംപ്യൂട്ടറുകളുടെയും മെമ്മറിയുടെയും വലുപ്പം കുറഞ്ഞതോടെ ഒരുപാട് ചെറിയ റിയൽ ടൈം ആപ്ലിക്കേഷനുകളിൽ വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക്ഉപയോഗിക്കാൻ സാധിക്കുന്നു ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടർ മൌസ് അതിനുള്ളിലെ പ്രോസസറും സോഫ്റ്റ്വെയറും യഥാർത്ഥത്തിൽ അദൃശ്യമാണ് നമുക്ക് ആശ്ചര്യം തോന്നുന്നത് എത്ര ചെറിയ പ്രോസസറും സോഫ്റ്റ്വെയറും ആണ് ഒരു ചെറിയ കമ്പ്യൂട്ടർ മൌസ് ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്നത് എന്നതാണ് അതോടൊപ്പം ഇതിന്റെ പ്രോസസിംഗ് പവറു വളരെയധികം കൂടിയിരിക്കുന്നു അതുപോലെതന്നെ ഇത് വളരെ വിശ്വാസം ഉള്ളവയുമാണ് പണ്ടെല്ലാം ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിനെയും വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു അതായത് ചിലപ്പോൾ ഹാർഡ്വെയർ ടൌൺ ആകാനും സോഫ്റ്റ്വെയറിൽ ബഗും തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എന്നാൽ ഇന്ന് ഇതിന്റെ എല്ലാം വിശ്വസ്തത കൂടി ഇരിക്കുകയും നമ്മുടെ സാധാരണ ഉപകരണങ്ങളിൽ നമ്മൾ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് നോക്കുന്നതിനു മുൻപ് ആയിട്ട് എംബഡഡ് ആപ്ലിക്കേഷനുകളുടെ സവിശേഷതകൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടെന്നാൽ റിയൽ ടൈം ഓപ്പറേറ്റിങ് സിസ്റ്റത്തിന് പ്രധാന ആപ്ലിക്കേഷനുകൾ ഇതൊക്കെ തന്നെയാണ് ഈ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു റിയൽ ടൈം ഓപ്പറേറ്റിങ് സിസ്റ്റം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലെ ഒരു കാര്യം എന്തെന്നാൽ എംബഡഡ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ ഫിസിക്കൽ സിസ്റ്റത്തിൽ എംബഡ് ചെയ്തിരിക്കുന്നു ഇതിൽ ഇൻപുട്ട് എക്സ്റ്റേണൽ ഇൻപുട്ട് ഇവൻസ് പ്രോസസ് ചെയ്തു ഔട്ട്പുട്ട് ഇവെന്റുകൾ ഉണ്ടാക്കുന്നു ഇത് വീണ്ടും ഇൻപുട്ട് പ്രൊസസറിൽ അയച്ചു കൊടുക്കുന്നു ഒരു ചെറിയ ഉദാഹരണം ഓട്ടോമൊബൈൽ എയർബാഗ് സിസ്റ്റമാണ് അതായത് എപ്പോൾ ഒരു അപകടം നടന്നാലും മോഷൻ സെൻസർ ആ അപകടത്തെ അറിയുകയും എയർബാഗ് 10 മില്ലി സെക്കൻഡിനുള്ളിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ആ സിസ്റ്റം ഒരു പരാജയം ആയാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് ഇവിടെ നമ്മുടെ എയർബാഗ് സിസ്റ്റത്തിന് ഉള്ളിൽ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നു അത് ഇടവേളയില്ലാതെ പുറമേ നടക്കുന്ന സംഭവങ്ങളെ നിരീക്ഷിക്കുകയും മോഷൻ സെൻസറിൽ ഒരു അപകടം രേഖപ്പെടുത്തുമ്പോൾ 10 സെക്കൻഡിനുള്ളിൽ എയർബാഗ് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു ഇത് സമയനിയന്ത്രിതം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എന്നത് ഈ സിസ്റ്റംത്തിന്ടെ ഒരു ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത ചോദ്യം ഒരു റിയൽ ടൈം ഓപ്പറേറ്റിങ് സിസ്റ്റം എങ്ങനെയാണ് ഒരു ട്രഡീഷണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയി വ്യത്യസ്ത പെട്ടിരിക്കുന്നത് എന്നതാണ് ഇതിന്റെ ആദ്യ കാര്യം എന്നത് റിയൽ ടൈം സിസ്റ്റത്തിൽ ടാസ്കുകൾ സമയം നിയന്ത്രിതമായി ഡെഡ് ലൈന് ഉള്ളിൽ തീർക്കണം എന്നതാണ് അല്ലെങ്കിൽ ആ സിസ്റ്റം ഒരു പരാജയം ആയിട്ടാണ് കണക്കിലെടുക്കുന്നത് അതുപോലെതന്നെ പ്രതികരിക്കാൻ വൈകിയാലും സിസ്റ്റം ഒരു പരാജയമാണ് മറുവശത്ത് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിങ് സിസ്റ്റം എന്നത് റെസ്പോൺസ് ടൈം കുറയ്ക്കുക എന്നതും ഓപ്പറേറ്റിങ് സിസ്റ്റം നല്ലരീതിയിൽ പ്രവർത്തിപ്പിക്കുക എന്നതുമാണ് പ്രധാനമായിട്ടുള്ള കർത്തവ്യം ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്നത് കമാൻഡുകൾ വേഗത്തിൽ റിയാക്റ്റ് ചെയ്യുക ടാസ്ക് തീർക്കുക ഇതിന്റെ ടേൺ എറൌണ്ട് ടൈം മുതലായവയാണ് എന്നാൽ റിയൽ ടൈം ഓപ്പറേറ്റിങ് സിസ്റ്റത്തിൽ നമ്മൾ റെസ്പോൺസ് ടൈം കുറയ്ക്കുക അല്ല ചെയ്യുന്നത് ടാസ്കുകൾ വേഗം തീർക്കുക എന്നതിലുപരി ടാസ്കുകൾ സമയ നിയന്ത്രിതമായി തീർക്കുക എന്നതിലാണ് റിയൽ ടൈം സിസ്റ്റം പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഡെഡ്ലൈൻ 100 മില്ലി സെക്കൻഡ് ആണെങ്കിൽ അത് 100 മില്ലി സെക്കൻഡ് തീർക്കണം അതുപോലെ തന്നെ അത് 1 മില്ലി സെക്കൻഡ് കൊണ്ട് തീർത്താൽ പ്രത്യേക പാരിതോഷികം ഒന്നും കിട്ടാൻ പോകുന്നില്ല അതായത് എല്ലാ ടാസ്കുകൾ അതിന്റെ ഡെഡ് ലൈനിന്റെ ഉള്ളിൽ തന്നെ തീർത്ക്കണം എന്നാൽ അതിന്റെ പ്രവർത്തനങ്ങൾ ന്യായം ആയിരിക്കും എന്നതിന് ഉറപ്പില്ല അതായത് ചില ടാസ്കുകൾ വൈകിയേക്കാം എന്നിരുന്നാലും മൊത്തത്തിലുള്ള ടാസ്കുകൾ ഡെഡ്ലൈൻ ഉള്ളിൽ തന്നെ തീർത്തിരിക്കുന്നു റിയൽ ടൈം സിസ്റ്റംത്തിന്ടെ സവിശേഷത എന്നത് ഒരു ടാസ്ക്സ് എങ്കിലും സമയ നിയത്രിതമായിരിക്കുമെന്നതും ഇതിന്റെ ഫലം ലോജിക്കൽ ആയി ശെരിയും സമയ നിയത്രിതമായിരികും അല്ലെകിൽ സിസ്റ്റം തെറ്റായി കണക്കാക്കപെടുന്നു പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നേക്കാം എംബെഡ്ഡ്ഡ് സിസ്റ്റം വളരെ ചെറുതും കുറച്ചു പ്രോസസ്സിംഗ് പവറും ചെറിയ മെമ്മറിയുമാണെന്നു പിന്നെ എന്തിനു നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇലാതെ തന്നെ നമുക്ക് പ്രോഗ്രാമിങ് എഴുതി ഇവെന്റുകളും അതിന്ടെ റെസ്പോൺസും എഴുതിക്കൂടെ വളരെ ലളിതമായ ഒരു എംബെഡ്ഡ്ഡ് സിസ്റ്റം എടുക്കാം ഒരു എയർ കണ്ടിഷണർ ഇതിന്ടെ ജോലി വളരെ ലളിതമാണ് ഇവിടെ നമ്മൾ അന്തരീക്ഷതാപനില നിരീക്ഷിക്കുകയും താപനില കൂടുമ്പോൾ AC ഓൺ ചെയ്യുകയും താപനില കുറയുമ്പോൾ മോട്ടർ വീണ്ടും സ്വിച്ച് അപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഇത് വളരെ ലളിതമായ ഒരു ജോലിയും ഇവിടെ ശരിക്കും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആവശ്യമില്ല പക്ഷേ ടാസ്കുകൾക്കിടയിൽ മൾട്ടിപ്പിൾ സിങ്ക്രനസേഷൻ ഉണ്ടെങ്കിൽ മെമ്മറി ഡിമാൻഡിങ് ടാസ്കുകൾ ഫയലുകളിലെ ഡാറ്റാ സ്റ്റോറേജ് നെറ്റ്വർക്കിംഗ് ഗ്രാഫിക്സ് ഡിസ്പ്ലേസ് വിവിധ തരത്തിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് തമ്മിലുള്ള ഇന്റർഫേസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആപ്ലിക്കേഷനുകളിൽ ബഫറിംഗ് സെക്യൂരിറ്റി പവർ മാനേജ്മെന്റ് മുതലായവ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും ഈ ജോലികൾ എല്ലാം തന്നെ ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം ഒരു പ്രോഗ്രാം ആണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രോഗ്രാം വളരെ വലുതും സമയം ഒരുപാട് എടുക്കുന്നതും അതുപോലെതന്നെ വില കൂടിയത് ആയിരിക്കും എംബഡഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുള്ള ഒരു ഉദാഹരണം നോക്കാം ഒരു സ്മാർട്ട്ഫോൺ അതിന്റെ ഓപ്പറേറ്റിങ് സിസ്റ്റത്തിൽ കോടിക്കണക്കിന് കോഡ് വരികളും ഇത് വളരെ വലുതുമാണ് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ്ർക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ഇത്രയും അധികം കോഡുകൾ എഴുതേണ്ടി വരികയാണെങ്കിൽ ഈ പ്രോജക്ട് തീരുവാൻ പല വർഷങ്ങൾ എടുക്കുകയും ഇത് ഒരുപാട് ചെലവ് ഉള്ളത് ആവുകയും ചെയ്യും മറ്റൊരു വശത്ത് നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ എംബെഡ്ഡ്ഡ് ഡിവൈസുകൾ വേണ്ടിവരുന്ന ലൈസൻസ് തുക 100 രൂപയോ അതിനോട് അടുത്ത് മാത്രമേ ആകുന്നുള്ളൂ ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിങ്ങ് സിസ്റ്റം വളരെ ചെലവേറിയതും ആയിരക്കണക്കിന് രൂപയുടെ അടുത്ത് വരുന്നതുമാണ് എന്നാൽ ഒരു എംബഡ് ഓപ്പറേറ്റിങ് സിസ്റ്റത്തിന് 100 രൂപയോ 50 രൂപയോ ചിലപ്പോൾ അതിലും താഴെ മാത്രമേ ആകുന്നുള്ളൂ ഓപ്പറേറ്റിങ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന സവിശേഷതകൾ വളർത്തുന്നതിൽ ഉപരി റിയൽ ടൈം ഓപ്പറേറ്റിങ് സിസ്റ്റം ഉപയോഗിക്കുന്നത് അർഥം ഉള്ളതാകുന്നു ഒരു ലളിതമായ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നതും വളരെ ലളിതമായ ജോലികൾ ആണ് ഇതിന് അധികം മെമ്മറിയുടെ ആവശ്യകത ഇല്ല എന്നു മാത്രമല്ല ഇതിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കേണ്ട കാര്യവുമില്ല ഉദാഹരണത്തിന് ഒരു എയർകണ്ടീഷണർ അതല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോളർ പക്ഷേ ഇന്നു നമ്മൾ കാണുന്ന മിക്ക എംബഡഡ് ഡിവൈസുകലും കൂടുതൽ സങ്കീർണമാകുകയും അതിനെല്ലാം തന്നെ ഒരു എംബഡ്ഡ് റിയൽ ടൈം ഓപ്പറേറ്റിങ് സിസ്റ്റം ആവശ്യമായി വരികയും ചെയ്യുന്നു നമ്മുടെ അടുത്ത ചോദ്യം ഏതെല്ലാമാണ് വ്യത്യസ്തമായ റിയൽ ടൈം സിസ്റ്റംസ് എന്നുള്ളതും ഈ റിയൽ ടൈം സിസ്റ്റവും ട്രഡീഷണൽ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതുമാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് റിയൽ ടൈം സിസ്റ്റത്തിൽ ജോലികൾ ചെയ്യുന്നത് ഡെഡ്ലൈനുകൾ അതല്ലെങ്കിൽ നിയന്ത്രിതമായ സമയ പരിമിതികൾക്കുള്ളിൽ നിന്നു കൊണ്ടാണ് ഈ റിയൽ ടൈം സിസ്റ്റത്തിനേ മൂന്നായി നമ്മൾ തിരിച്ചിരിക്കുന്നു അതായത് ഹാർഡ് റിയൽ ടൈം സിസ്റ്റം സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംHard Real Time System Soft Real Time System അതുപോലെതന്നെ ഫേർമ് റിയൽ ടൈം സിസ്റ്റം അടിസ്ഥാനപരമായി ഇവരു തമ്മിലുള്ള വ്യത്യാസം ഇവർ ചെയ്യുന്ന ജോലിയുടെ പരിണിത ഫലവും അതുപോലെതന്നെ ഡെഡ്ലൈനുകൾ എത്രത്തോളം ഇവർ പാലിക്കുന്നു എന്നുള്ളതും വെച്ചിട്ടാണ് ഈ മൂന്ന് സിസ്റ്റംസ് നോക്കുകയാണെങ്കിൽ ജോലികൾ ഡെഡ്ലൈൻ ഉള്ളിൽ തീർക്കുന്നില്ലങ്കിൽ എന്ത് പരിണിതഫലമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആദ്യമായി ഹാർഡ് റിയൽ ടൈം സിസ്റ്റത്തിന്ടെ കാര്യത്തിൽ ഡെഡ് ലൈനിൻ ഉള്ളിൽ ജോലികൾ തീരുന്നില്ല എങ്കിൽ ഈ സിസ്റ്റം ഒരു പരാജയം ആയിട്ടാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് ഒരു സംഭവം നടന്നു ഇത്ര സമയത്തിനുള്ളിൽ അതിന്റെ റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ ഈ സിസ്റ്റം ഒരു പരാജയമാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത ഇവിടെ സമയപരിധികൾ നമ്മൾ നൽകുന്നത് മൈക്രോ സെക്കൻഡുകൾ അതല്ലെങ്കിൽ മില്ലി സെക്കൻഡിലാണ് അതായത് സാധാരണഗതിയിൽ മിനിറ്റ് സെക്കൻഡ് അവർ എന്നീ സമയപരിധികൾ നമ്മളിവിടെ കൊടുക്കുന്നില്ല മിക്ക ഹാർഡ് റിയൽ ടൈം സിസ്റ്റവും സുരക്ഷാ പ്രാധാന്യമുള്ളവയാണ് ഉദാഹരണത്തിന് ഇൻഡസ്ട്രിയൽ കൺട്രോൾ ആപ്ലിക്കേഷൻസ് ഓൺ ബോർഡ് കമ്പ്യൂട്ടർ റോബോട്ട് മുതലായവ ഇതിന് വിപരീതമായി ഫേർമ് റിയൽ ടൈം സിസ്റ്റത്തിൽ ഡെഡ്ലൈഉളിൽ ജോലി തീർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ സിസ്റ്റം ഒരു പരാജയം ആയിട്ടല്ല അതിനുപകരം കിട്ടിയ ഉത്തരം നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഫേർമ് റിയൽ ടൈം സിസ്റ്റത്തിന് ഉദാഹരണമാണ് വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷൻ ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡാറ്റാ ഫ്രെയിം വരുവാനായി വൈകുകയാണെങ്കിൽ നമ്മൾ അതിനെ അവഗണിക്കുന്നു അത് ഇല്ലാതെയുള്ള ഡിസ്പ്ലേ വിറയൽ ഉള്ളതും അസുഖകരമായ തുആണ് അതിനാൽ വൈകിവരുന്ന ഫ്രെയിം നമ്മൾ അവഗണിക്കുന്നു ഇതിന്റെ മറ്റു ചില ആപ്ലിക്കേഷനുകളാണ് ടെലിമെറ്ററി ആപ്ലിക്കേഷൻ സാറ്റലൈറ്റ് ബേസ്ഡ് ആപ്ലിക്കേഷൻ മുതലായവ മറ്റൊരുവശത്ത് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റത്തിൽ ഡെഡ്ലൈനുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും സിസ്റ്റം ഒരു പരാജയമായി കണക്കിലെടുക്കുന്നില്ല ഇവിടെ ഉത്തരത്തിന് മൂല്യം കുറവാണ് അതായത് കൂടുതൽ തവണ ഡെഡ്ലൈനുകൾ പരാജയപ്പെടുകയാണെങ്കിൽ സിസ്റ്റത്തിന്റെ പ്രകടനവും കുറയുന്നു ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരു ഡെഡ്ലൈനിനു ഉള്ളിലാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ യൂട്ടിലിറ്റി 100 ആയിരിക്കും എന്നാൽ ഡെഡ്ലൈൻ കടന്നു പോവുകയാണെങ്കിൽ ഇതിന്റെ യൂട്ടിലിറ്റി കുറയുന്നതാണ് ഇതിന്റെ ഉദാഹരണമാണ് റെയിൽവേ റിസർവേഷൻ സിസ്റ്റം വെബ് ബ്രൌസിങ് അതുപോലെതന്നെ ഇൻറ്ററാക്റ്റിവ് ആപ്ലിക്കേഷൻസ് മുതലായവ ഇതിനെല്ലാം ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ആണ് അതായത് ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് അതിനുള്ളിൽ എങ്കിൽ മാത്രമാണ് ഈ സിസ്റ്റം നല്ല പ്രകടനം കാഴ്ചവയ്ക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇത് ഒരുപാട് മിനിറ്റുകൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രകടനവും കുറയുന്നതായി നമുക്ക് പറയാൻ സാധിക്കും Thank you